ഓൺലൈൻ സോഷ്യൽ മീഡിയയിലെ സ്വകാര്യതയും സുരക്ഷയും സംബന്ധിച്ച കോഴ്സിലേക്ക് സ്വാഗതം ആഴ്ച 2 കോഴ്സിന്റെ ഓൺലൈൻ ഫോറത്തിൽ നിങ്ങൾ പങ്കെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ധാരാളം ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതും ഉത്തരം നൽകുന്നതും ഞാൻ ഇതിനകം കാണുന്നു എന്റെ ആത്മാർത്ഥമായ അഭ്യർത്ഥന നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് പോസ്റ്റുകൾ വായിക്കുക എന്നതാണ് അതായത് നിങ്ങളുടെ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഇതിനകം ചോദിച്ച ചോദ്യങ്ങളും ഇതിനകം നൽകിയ ഉത്തരങ്ങളും വായിക്കുക കൂടാതെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മാത്രമല്ല ഓൺലൈൻ ഫോറത്തിൽ പങ്കെടുക്കുക മറ്റുള്ളവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ അവയ്ക്കും ഉത്തരം നൽകാൻ ശ്രമിക്കുക ഞങ്ങൾ പോസ്റ്റ് ചെയ്ത അസൈൻമെന്റ് 1 നിങ്ങളിൽ ഭൂരിഭാഗവും കണ്ടുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ കരുതുന്നു രണ്ടാമത്തെ ആഴ്ചയിലെ വാരാന്ത്യം അസൈൻമെന്റിനുള്ള അവസാന തീയതിയാണ് ദയവായി ഇത് പരിഹരിക്കാൻ ശ്രമിക്കുക അസൈൻമെന്റ് 1 യഥാർത്ഥത്തിൽ വളരെ ലളിതമാണ് ഞങ്ങൾ ചെയ്ത സ്ലൈഡുകളിൽ നിന്നും ചില ട്യൂട്ടോറിയലുകളിൽ നിന്നും ചില ചോദ്യങ്ങൾ ചോദിച്ചു നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളുടെ ഒരു ദ്രുത സംഗ്രഹം ഞാൻ നിങ്ങൾക്ക് നൽകട്ടെ തുടർന്ന് ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളുമായി ഞാൻ മുന്നോട്ട് പോകും അതിനാൽ ആദ്യം സോഷ്യൽ മീഡിയ എന്താണെന്ന് നമ്മൾ കണ്ടു വ്യത്യസ്ത തരം സോഷ്യൽ നെറ്റ്വർക്കുകൾ വ്യത്യസ്ത തരം ഉള്ളടക്കങ്ങൾ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു സോഷ്യൽ നെറ്റ്വർക്ക് ക്ലാസിക്കൽ ഓൺലൈൻ സോഷ്യൽ മീഡിയ സേവനങ്ങൾ പിന്നെ ചിലത് ക്ഷണികമായ സോഷ്യൽ നെറ്റ്വർക്കുകളും അജ്ഞാത സോഷ്യൽ നെറ്റ്വർക്കുകളും പോലെയാണ് ഓൺലൈൻ സോഷ്യൽ മീഡിയ എന്താണ് അർത്ഥമാക്കുന്നത് എന്നും നമ്മൾ കണ്ടു 60 സെക്കൻഡിനുള്ളിൽ സോഷ്യൽ മീഡിയയിൽ എത്ര ഡാറ്റ സൃഷ്ടിക്കപ്പെടുന്നു യൂട്യൂബിൽ 400 മണിക്കൂർ വീഡിയോകൾ അപ്ലോഡുചെയ്യുന്നത് നമ്മൾ കണ്ടു 3 3 ദശലക്ഷം പോസ്റ്റുകൾ ഫേസ്ബുക്കിലും അതുപോലുള്ള കാര്യങ്ങളിലും ചെയ്യുന്നു ഓൺലൈൻ സോഷ്യൽ മീഡിയ സേവനങ്ങളിൽ വലിയ അളവിൽ ഉള്ളടക്കം സൃഷ്ടിക്കപ്പെടുന്നുവെന്ന് ഇത് അടിസ്ഥാനപരമായി കാണിക്കുന്നു ഓൺലൈൻ സോഷ്യൽ മീഡിയയുടെ 4 അല്ലെങ്കിൽ 5 V എന്താണെന്ന് നമ്മൾ കണ്ടു അവ വോളിയം വെലോസിറ്റി വേറാസിറ്റി വെറൈറ്റി വാല്യൂ എന്നിവയാണ് അവ ഓൺലൈൻ സോഷ്യൽ മീഡിയയുടെ 5 V ആണ് യഥാർത്ഥ ലോകത്തിലും സമൂഹത്തിലും ഓൺലൈൻ സോഷ്യൽ മീഡിയ ഒരു പ്രധാന പങ്ക് വഹിച്ച ചില സംഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതന്നു ഓൺലൈൻ സോഷ്യൽ മീഡിയയിലെ വ്യത്യസ്ത പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഉദാഹരണത്തിന് ഈ സാഹചര്യത്തിൽ ഇത് ഒരു വിട്ടുവീഴ്ച ചെയ്ത അക്കൌണ്ടാണ് വൈറ്റ് ഹൌസിലെ രണ്ട് സ്ഫോടനങ്ങൾ ബരാക് ഒബാമയ്ക്കും പരിക്കേറ്റു എന്ന് പോസ്റ്റ് എഴുതിയ ഒരു അക്കൌണ്ട് അപഹരിക്കപ്പെട്ടു ഈ ട്വീറ്റിന് കടുത്ത പ്രത്യാഘാതങ്ങളുണ്ടായി തുടർന്ന് ഓൺലൈൻ സോഷ്യൽ മീഡിയയിൽ സംഭവിക്കുന്ന വിവിധ വിഷയങ്ങൾ നമ്മൾ നോക്കി വിട്ടുവീഴ്ച ചെയ്ത അക്കൌണ്ട് ഈ കേസിൽ വ്യാജ ഉള്ളടക്കം 2015 ഡിസംബറിൽ ചെന്നൈ വെള്ളപ്പൊക്കം നടക്കുമ്പോൾ ചെന്നൈയിലെ തെരുവുകളിൽ ഒരു മുതലയുടെ ചിത്രം പൌരന്മാരിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു കൂടാതെ ഓൺലൈൻ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കാരണം ജോലിയും മറ്റ് പ്രശ്നങ്ങളും നഷ്ടപ്പെടുന്ന ആളുകളും ഉണ്ടായിരുന്നു കൂടാതെ ആഴ്ച 1 ൽ നമ്മൾ ലിനക്സിനെക്കുറിച്ചും പൈത്തണിനെക്കുറിച്ചും അൽപ്പം വിശദീകരിച്ചു ഈ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ എല്ലാം സജ്ജമാക്കിയിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം നിങ്ങൾക്ക് വിൻഡോസ് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് ചില ചോദ്യങ്ങളുണ്ടായിരുന്നു നിങ്ങൾക്ക് വിൻഡോസ് ഉപയോഗിക്കാനും പൈത്തണിൽ പ്രോഗ്രാമുകൾ ചെയ്യാനും കഴിയണം പക്ഷേ ഞങ്ങളുടെ പിന്തുണ കൂടുതലും ലിനക്സിൽ ആയിരിക്കും കൂടാതെ തീർച്ചയായും ലിനക്സ് പഠിക്കുന്നതും നിങ്ങൾക്ക് നല്ലതാണ് ഇന്ന് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് കുറച്ച് കാര്യങ്ങളാണ് ഒന്ന് ഈ കോഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്ന വ്യത്യസ്ത ചട്ടക്കൂടുകളോ പ്ലാറ്റ്ഫോമുകളോ നോക്കാൻ ഞാൻ ആഗ്രഹിച്ചു അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഓൺലൈൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഡാറ്റ ശേഖരിക്കാനും വിശകലനം ചെയ്യാനും അനുമാനങ്ങൾ ഉണ്ടാക്കാനും ഈ കോഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഒരു API എന്താണെന്ന് നമ്മൾ നോക്കും ഫേസ്ബുക്കിനും ട്വിറ്ററിനും ലഭ്യമായ വ്യത്യസ്ത തരം API കൾ തുടർന്ന് നമ്മൾ പ്രോഗ്രാമിംഗ് ഭാഷകളും നോക്കും പൈത്തണിനെക്കുറിച്ച് ഒരു ട്യൂട്ടോറിയൽ ഉണ്ടായിരുന്നു ഞാൻ അത് വേഗത്തിൽ എടുക്കും എന്തായാലും ആഴ്ച 2 1 ലെ എന്റെ ജോലി ഈ വിഷയങ്ങളെക്കുറിച്ച് പൊതുവായി പരിചയപ്പെടുത്തുക മാത്രമാണ് തുടർന്ന് നമ്മൾ ക്ക് ട്യൂട്ടോറിയലുകൾ ഉണ്ടാകും അവയിൽ ചിലതിൽ പ്രത്യേകമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പിന്നെ നമ്മൾ പ്രോഗ്രാമിംഗ് ഭാഷകൾ നോക്കുന്നു തുടർന്ന് ഈ ഡാറ്റ എങ്ങനെയാണ് സംഭരിച്ചിരിക്കുന്നത് ഏത് തരത്തിലുള്ള ഫോർമാറ്റിലാണ് ഡാറ്റ പുറത്തുവരുന്നത് എന്ന് നമ്മൾ കുറച്ച് ഡാറ്റാബേസും നോക്കും വിഷ്വലൈസേഷൻ ടൂളിനെക്കുറിച്ച് കുറച്ച് നോക്കും ആദ്യം API അതായത് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് ഇത് അടിസ്ഥാനപരമായി ഓൺലൈൻ സോഷ്യൽ മീഡിയയുമായി സംവദിക്കാനും പ്രോഗ്രമാറ്റിക്കായി അവിടെ നിന്ന് ഡാറ്റ ശേഖരിക്കാനും നിങ്ങളെ പ്രാപ്തരാക്കുന്നു എന്താണ് ഇതിന്റെ അര്ഥം ഇതിനർത്ഥം ഡാറ്റ ശേഖരിക്കുന്നതിന് നിങ്ങളുടെ പ്രോഗ്രാമിൽ നിന്ന് സോഷ്യൽ മീഡിയ സേവനങ്ങളിലേക്ക് ഒരു തുരങ്കമുണ്ടാക്കാം എന്നാണ് ഇത് നിങ്ങളുടെ പ്രോഗ്രാമിനും ഓൺലൈൻ സോഷ്യൽ മീഡിയ സേവനങ്ങൾക്കുമിടയിൽ ഒരു തുരങ്കം സൃഷ്ടിക്കുന്നു അവിടെ നിങ്ങൾ കുറച്ച് ഡാറ്റ ചോദിക്കാൻ പോകുന്നു തുടർന്ന് സോഷ്യൽ മീഡിയ സേവനം പ്രതികരിക്കാൻ പോകുന്നു നിങ്ങൾ ആവശ്യപ്പെട്ട ഡാറ്റ ഇതാ പ്രത്യേകിച്ചും നമ്മളുടെ കാര്യത്തിൽ Facebook Twitter എന്നിവയിൽ നിന്നുള്ള ഡാറ്റ ശേഖരിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന Facebook Twitter എന്നിവയ്ക്കായുള്ള API കൾ നമ്മൾ നോക്കും മറ്റ് API കളും ഉണ്ട് മറ്റെല്ലാ സോഷ്യൽ മീഡിയ സേവനങ്ങളും അല്ലെങ്കിൽ ഭൂരിഭാഗം സോഷ്യൽ മീഡിയ സേവനങ്ങളും നിങ്ങൾക്ക് ഒരു API നൽകുന്നു ഈ കോഴ്സിൽ നമുക്ക് എല്ലാം ഉൾക്കൊള്ളാൻ കഴിയില്ല നമ്മൾ ഏറ്റവും ജനപ്രിയമായവയോ അല്ലെങ്കിൽ ഈ കോഴ്സിന് ഉപയോഗിക്കാൻ കഴിയുന്നവയോ മാത്രമേ നോക്കൂ ഇത് API കൾ എങ്ങനെ പ്രവർത്തിക്കുന്നു ഏത് ഡാറ്റ ശേഖരിക്കാനാകും എന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും മറ്റ് സോഷ്യൽ മീഡിയ സേവനങ്ങൾക്കായി നിങ്ങൾക്ക് അത് സ്വയം ചെയ്യാൻ കഴിയും നിങ്ങൾ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം റേറ്റ് ലിമിറ്റിനെ കുറിച്ചാണ് സോഷ്യൽ മീഡിയ സേവനങ്ങളിൽ നമ്മൾ ഡാറ്റ ശേഖരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഈ സേവനങ്ങളിൽ ലഭ്യമായതെല്ലാം നിങ്ങൾക്ക് ശേഖരിക്കാൻ കഴിയില്ല കാരണം നിങ്ങൾക്ക് എല്ലാ ഡാറ്റയും നൽകാൻ കമ്പനികൾ ആഗ്രഹിക്കുന്നില്ല എല്ലാ സോഷ്യൽ മീഡിയ സേവനങ്ങൾക്കും അവരിൽ നിന്ന് നമ്മൾ ശേഖരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഡാറ്റയ്ക്കും തങ്ങൾക്ക് നിരക്ക് പരിധിയുണ്ടെന്ന് പറഞ്ഞ് അവർ അത് സജ്ജമാക്കി വച്ചിരിക്കുകയാണ് അതിനാൽ നിരക്ക് പരിധികളെ കുറിച്ചുള്ള ട്യൂട്ടോറിയലുകളിൽ പ്രത്യേകിച്ച് ഓരോ സോഷ്യൽ മീഡിയ API യെക്കുറിച്ചും നമ്മൾ നോക്കും ഈ സേവനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ശേഖരിക്കാനാകുന്ന ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ നിരക്ക് പരിധി സംബന്ധിച്ച് ഒരു ആശയം നൽകാൻ ഞാൻ ആഗ്രഹിച്ചു നിങ്ങൾ ഇതിനകം പൈത്തണിനെക്കുറിച്ച് ഒരു ട്യൂട്ടോറിയൽ ചെയ്തിട്ടുള്ളതിനാൽ ഞാൻ ഇത് ചുരുക്കും ഇത് അടിസ്ഥാനപരമായി ഒരു പ്രോഗ്രാമിംഗ് ഭാഷയാണ് അത് ഡാറ്റ ശേഖരിക്കാൻ ഉപയോഗിക്കുന്നു കൂടാതെ സോഷ്യൽ മീഡിയ സേവനങ്ങൾക്ക് API അഭ്യർത്ഥനകൾ എഴുതുന്നതിൽ നിലവിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ജനപ്രിയമായ ഭാഷകളിൽ ഒന്നാണ് ഇത് URL കൾ വായിക്കുന്നതിനും ഡാറ്റ പാഴ്സ് ചെയ്യുന്നതിനും API യുമായി ഇടപഴകുന്നതിനും JSON ഒബ്ജക്റ്റുകൾ മനസ്സിലാക്കുന്നതിനും അതുപോലുള്ള കാര്യങ്ങൾക്കും ഇതിനു ധാരാളം ലൈബ്രറികളും ഉണ്ട് ഡാറ്റാ ഫോർമാറ്റ് പ്രത്യേകിച്ച് API നിങ്ങൾ Facebook ലേക്ക് PK യുടെ സുഹൃത്തുക്കളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ദയവായി നൽകുക അല്ലെങ്കിൽ PK യുടെ ജനനത്തീയതിയെക്കുറിച്ചോ അല്ലെങ്കിൽ എന്റെ സുഹൃത്തുക്കളുടെ നെറ്റ്വർക്കിനെക്കുറിച്ചോ വിവരങ്ങൾ ദയവായി എനിക്ക് തരൂ എന്ന് അഭ്യർത്ഥന അയക്കുമ്പോൾ അത് നിങ്ങൾക്ക് തിരികെ നൽകാൻ പോകുന്നതെന്തും അത് ഏതെങ്കിലും ഫോർമാറ്റിൽ ആയിരിക്കും ഇത് നിങ്ങൾക്ക് നൽകുന്ന ഒരു ഫോർമാറ്റ് ഒരു JSON ഫോർമാറ്റാണ് ഈ ഫോർമാറ്റിന്റെ അർത്ഥമെന്താണെന്നും ഫേസ്ബുക്കിൽ നിന്നോ ട്വിറ്ററിൽ നിന്നോ തിരികെ വരുന്ന ഡാറ്റയെ ഞങ്ങൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നതെന്ന് ഞങ്ങൾ ചുരുക്കമായി കാണും ചില സോഷ്യൽ മീഡിയ സേവനങ്ങൾ നൽകുന്ന ഒരു ഫോർമാറ്റ് കൂടിയായ XML അല്ലെങ്കിൽ JSON ഒരു എക്സ്എംഎൽ പോലെയാണ് ഇത് വിപുലീകരിച്ച മാർക്ക് അപ്പ് ഭാഷയാണ് എക്സ്സ്റ്റെൻഡഡ് മാർക്ക് അപ്പ് ലാംഗ്വേജ് JSON എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് JSON എന്നാൽ സോഷ്യൽ മീഡിയ സേവനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്ന ഒരു ഡാറ്റയാണ് JavaScript ഒബ്ജക്റ്റ് നോട്ടേഷൻ ഈ സ്ലൈഡിൽ എനിക്കുള്ള ഒരു ഉദാഹരണം ഇതാ നിങ്ങൾ ഒരു പ്രത്യേക ഉപയോക്താവിന്റെ ഐഡിയും പേരും ആവശ്യപ്പെടുമ്പോൾ തിരികെ ലഭിക്കുന്ന JSON ഒബ്ജക്റ്റിനെക്കുറിച്ച് കാണിക്കുന്നു അതിനാൽ ഇത് ഗ്രാഫ് എപിഐ എക്സ്പ്ലോറർ ആണ് ഇത് ട്യൂട്ടോറിയലിൽ നിങ്ങൾ കൂടുതൽ വിശദമായി കാണും പക്ഷേ ഇത് അടിസ്ഥാനപരമായി ബ്രൌസർ മുഖേനയാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഡാറ്റ നോക്കാനും നിങ്ങളുടെ Facebook ഡാറ്റയുടെ JSON ഒബ്ജക്റ്റുകൾ നോക്കാനും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യാനും കഴിയും Facebook API അനുവദിക്കുന്നു ഈ ഗ്രാഫ് API വഴി നമുക്ക് കാണാൻ കഴിയും JSON എന്നത് ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് നോട്ടേഷനാണെന്ന് നമ്മൾ ഊന്നിപ്പറയുന്നു അത് വഴി ഡാറ്റ ഫേസ്ബുക്കിൽ സംഭരിച്ചിരിക്കുന്നു നിങ്ങൾ API വഴി അഭ്യർത്ഥിക്കുമ്പോൾ ഡാറ്റ ട്വിറ്ററിൽ സംഭരിക്കുന്നു പികെയെക്കുറിച്ചുള്ള ഈ ഡാറ്റ എനിക്ക് തരൂ എന്ന് പറഞ്ഞതിന് അത് JSON ഫോർമാറ്റിൽ ഡാറ്റ നൽകുന്നു അടിസ്ഥാനപരമായി ഇന്ന് മിക്ക സോഷ്യൽ മീഡിയ സേവനങ്ങളും ഉപയോഗിക്കുന്ന ഫോർമാറ്റാണിത് നിങ്ങൾ JSON ൽ നിന്ന് ഡാറ്റ എടുക്കുമ്പോൾ ഈ JSON ൽ ലഭ്യമായ ഡാറ്റ Facebook ൽ നിന്നോ Twitter ൽ നിന്നോ തിരികെ വരുന്ന ഡാറ്റയെ വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് JSON dot viewer dot stack dot hu ഡോട്ട് വ്യൂവർ ഡോട്ട് സ്റ്റാക്ക് ഡോട്ട് ഹു ഉപയോഗിക്കാം ഇത് നിങ്ങൾക്ക് ദൃശ്യപരമായി കാണാൻ മാത്രമുള്ളതാണ് എന്ത് ഡാറ്റയാണ് തിരികെ വരുന്നത് എന്ന് Facebook ൽ നിന്ന് വരുന്ന ഡാറ്റ നിങ്ങൾ എടുത്തിട്ട് ഈ JSON വ്യൂവറിലേക്ക് പകർത്തി ഒട്ടിക്കുക ഫീൽഡുകൾ എന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ ഫേസ്ബുക്കിൽ നിന്ന് തിരികെ വരുന്ന ഡാറ്റ നോക്കുമ്പോൾ ഇത് സാധാരണയായി ധാരാളം ഡാറ്റയുടെ ഒരു ബ്ലോക്കാണ് നിങ്ങൾക്ക് അത് എടുത്ത് JSON വ്യൂവറിൽ ഇടാം അത് നിങ്ങൾക്ക് നൽകുന്ന ഫീൽഡുകൾ എന്താണെന്ന് കാണാൻ ഇതിന്റെ ട്യൂട്ടോറിയലുകൾ ചെയ്യുമ്പോൾ നമ്മൾ പതുകെ പോകും നിങ്ങൾ ഡാറ്റ ശേഖരിക്കുമ്പോൾ നിങ്ങൾക്ക് ഡാറ്റ ശേഖരിക്കാനുള്ള ഒരു മാർഗ്ഗം API ആണ് അതിനു ശേഷം ഈ ഡാറ്റ JSON ൽ തിരികെ വരുന്നു നിങ്ങൾ ഡാറ്റ ശേഖരിക്കുമ്പോൾ അത് ഏതെങ്കിലും ഫോർമാറ്റിൽ സംഭരിക്കേണ്ടതുണ്ട് മിക്കപ്പോഴും ഡാറ്റ സംഭരിക്കുന്ന ഫോർമാറ്റ് MySQL ൽ ആയിരിക്കും ഇത് ഡാറ്റ സംഭരിക്കുന്നതിനുള്ള ഒരു അനുബന്ധ ഡാറ്റാബേസാണ് ഈ ഡാറ്റ വരികളിലും നിരകളിലും സംഭരിക്കുകയും ലളിതമായ ക്വയറിസ് അന്വേഷണങ്ങൾ വഴി നിങ്ങൾക്ക് അത് ലഭിക്കാൻ സാധിക്കുകയും ചെയ്യും ഉദാഹരണത്തിന് ഈ സാഹചര്യത്തിൽ ഫേസ്ബുക്ക് വഴി ശേഖരിക്കുന്ന ഡാറ്റയിൽ നിന്ന് ഞാൻ ഉപയോക്തൃ ഐഡി ഉപയോക്തൃ സ്ക്രീൻ നാമം തിരഞ്ഞെടുക്കുന്നു അതിനാൽ ഇത് സഹായിക്കുന്നു അർത്ഥം ഞാൻ വീണ്ടും പറയുന്നു ഇത് MySQL ൽ തന്നെ ഒരു കോഴ്സല്ല നിങ്ങൾ എഴുതിയ പ്രോഗ്രാമുകളിലൂടെ നിങ്ങൾ യഥാർത്ഥത്തിൽ സംഭരിച്ചിരിക്കുന്ന ഡാറ്റ എങ്ങനെ നോക്കാം എന്നതിനെക്കുറിച്ചുള്ള ചില ലളിതമായ അന്വേഷണങ്ങൾ മാത്രമേ നമ്മൾ നോക്കൂ നമ്മൾ അടുത്തിടെ നോക്കാൻ തുടങ്ങിയ ജനപ്രിയമായ ഒന്നാണ് മോംഗോഡിബി ആളുകൾ ഇത് ഒരുപാടു ഉപയോഗിക്കുന്നു അതിനാൽ ഡാറ്റ സംഭരിക്കാനും ഫേസ്ബുക്കിൽ നിന്ന് ശേഖരിക്കുന്ന ഡാറ്റ സംഭരിക്കാനുമുള്ള മറ്റൊരു മാർഗമാണ് മോംഗോഡിബി അതിനാൽ വീണ്ടും API എന്താണെന്ന് ഞാൻ ഊന്നിപ്പറയട്ടെ അതിനു ശേഷം പ്രോഗ്രാമിംഗ് ഭാഷയുണ്ട് തുടർന്ന് MySQL ഡാറ്റാബേസ് അല്ലെങ്കിൽ MongoDB ഉണ്ട് അതായത് ഡാറ്റ ഒരു API വഴി വരുന്നു ശേഖരിച്ച് ഈ MySQL അല്ലെങ്കിൽ MongoDB യിലേക്ക് തള്ളുന്നു അതിനു ശേഷം ഇപ്പോൾ സംഭരിച്ചിരിക്കുന്ന ഡാറ്റ നോക്കാനുള്ള ഒരു മാർഗവും നമ്മൾക്ക് ആവശ്യമാണ് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മാർഗ്ഗം phpMyAdmin ആണ് ഇത് നിങ്ങളുടെ സ്വന്തം ഡാറ്റാബേസിൽ ഉള്ള ഡാറ്റ നോക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു MySQL phpMyAdmin ന് MySQL ൽ നിന്നുള്ള ഡാറ്റ കാണാൻ കഴിയും കൂടാതെ ഒരു MongoDB യിൽ നിന്നുള്ള ഡാറ്റ നോക്കാൻ റോബോ മോംഗോ നിങ്ങളെ സഹായിക്കും അതിനാൽ അടിസ്ഥാനപരമായി നിങ്ങൾക്ക് ഡാറ്റ ശേഖരിക്കാനും ഡാറ്റ സംഭരിക്കാനും നിങ്ങളുടെ പക്കലുള്ള ഡാറ്റ നോക്കാനും കഴിയുന്ന വഴികൾ ഇവയാണ് ഇത് റോബോ മോംഗോയുടെ മറ്റൊരു വ്യൂ ആണ് ഇത് ലഭ്യമായ വ്യത്യസ്ത ഫീൽഡുകൾ എന്താണെന്ന് കാണിക്കുന്നു ആ ഫീൽഡുകളിൽ എന്ത് ഡാറ്റയാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഫേസ്ബുക്കിലെ എല്ലാ ഉള്ളടക്കങ്ങളും യഥാർത്ഥത്തിൽ ഗ്രാഫ് ഫോർമാറ്റിലാണ് സംഭരിച്ചിരിക്കുന്നത് അതായത് ഉപയോക്താവിന് എനിക്ക് ഉണ്ടായിരിക്കേണ്ട സുഹൃത്തുക്കൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ചിത്രങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഞാൻ ചെയ്യുന്ന സ്റ്റാറ്റസ് അപ്ഡേറ്റുകൾ എന്നിവയെല്ലാം ഗ്രാഫിലെ ഒരു നോഡാണ് കൂടാതെ എല്ലാ ഇടപെടലുകളും അഭിപ്രായങ്ങളും ലൈക്കുകളും അതുപോലുള്ള കാര്യങ്ങളും ഈ ഗ്രാഫിലെ അരികുകളായി മാറുന്നു ഗ്രാഫ് ഫോർമാറ്റിൽ ഉള്ള എല്ലാ ഡാറ്റയുടേയും എല്ലാ ഇടപെടലുകളും Facebook യഥാർത്ഥത്തിൽ സംഭരിക്കുന്നു അതുകൊണ്ടാണ് അവരുടെ പക്കലുള്ള API യെ ഒരു ഗ്രാഫ് API എന്നും വിളിക്കുന്നത് അതേ സന്ദേശത്തിന്റെ മറ്റൊരു കാഴ്ച ഇതാ അതായത് എല്ലാ വസ്തുക്കളും ഗ്രാഫിൽ നോഡുകളായി സംഭരിച്ചിരിക്കുന്നു സുഹൃത്തുക്കൾ സൌഹൃദങ്ങൾ ഇഷ്ടങ്ങൾ എന്നിവ അരികുകളാണ് എല്ലാ നോഡുകൾക്കും സവിശേഷമായ സംഖ്യാ ഐഡി ഉണ്ട് അത് ഉപയോക്താക്കളും പേജുകളും പോസ്റ്റുകളും ആണ് നമ്മൾ കൂടുതലും ഉപയോക്താക്കളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പിന്നീട് നമ്മൾ പേജുകളെക്കുറിച്ച് സംസാരിക്കും ഇത് ഫേസ്ബുക്കിൽ ഉള്ളടക്കം സൃഷ്ടിക്കുന്നതിനുള്ള മറ്റൊരു മാർഗമാണ് ഈ ആഴ്ച ട്യൂട്ടോറിയലുകളിൽ ഒരു ഫേസ്ബുക്ക് API എന്താണെന്നും രഹസ്യ കീ എങ്ങനെ സൃഷ്ടിക്കുമെന്നും ഡാറ്റ ശേഖരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് Facebook ന് എന്ത് തരത്തിലുള്ള ആധികാരികത നൽകണം ഏത് ഡാറ്റ ശേഖരിക്കാനാകും എന്നിവയെക്കുറിച്ച് നിങ്ങൾ വിശദമായി നോക്കും അതു പോലുള്ള കാര്യങ്ങൾ പഠിക്കും